ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഫാരഡേ നിയമത്തിന്റെയും ലോറന്റ്സ് ബലത്തിൻെയും അടിസ്ഥാന തത്വത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്് നോക്കാം നീളം L ആയ ഒരു ചാലകത്തെയും ഒരു ഏണിയെയും സങ്കൽപ്പിക്കുക ഇനി അതിന്റെ രണ്ട് വശങ്ങളിലുമായി രണ്ട് ദണ്ഡുകൾ ബന്ധിപ്പിക്കുക ഈയൊരു ക്രമീകരണത്തിൽ എല്ലാ വസ്തുക്കളും പ്രവഹിക്കുന്നുണ്ട് ഈ ചാലകത്തിനു മുകളിൽ ഒരു സ്ഥിരകാന്തം വയ്ക്കുന്നുവെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇത് A യും ഇത് B യും ആകുന്നു അതേ സമയം ചാലകത്തിന്റെ നീളം L ഉം ആകുന്നുവെങ്കിൽ അതിന്റെ യഥാർഥ ഫ്ളക്സ് സാന്ദ്രത എന്നു പറയുന്നത് B യിലെ ഫ്ളക്സ് സാന്ദ്രതയാണ് ചാലകം കാന്തത്തെ B വേഗതയിൽ മറ്റൊരു വശത്തേക്ക് വലിച്ചിടുമ്പോൾ അവിടെ ഫ്ളക്സ് മുറിഞ്ഞു പോകുന്നു ആയതിനാൽ ഇവിടെ വോൾട്ടേജ് കൊണ്ട്് സംഭവിക്കുന്നത് EB ആണ് ഇവിടെ ഫ്ളക്സ് സാന്ദ്രത B ആണ് ആയതിനാൽ വോൾട്ടേജ് EBIV വർധിക്കുന്നു ഈയൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതെന്തെന്നാൽ പകുതി പ്രവാഹം അഥവാ വൈദ്യുതി ഈ ചാലകത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും ഈയൊരു സമയത്ത്് ഏണി അനക്കാതെ മുറുകെ പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അതിനെ ചലിപ്പിക്കാൻ വിട്ടാൽ എന്തു സംഭവിക്കും അങ്ങനെ അതിനെ ചലിപ്പിക്കാൻ അനുവദിക്കുമ്പോൾ അത് കാന്തം ചലിക്കുന്നതിന് സമാനമായി കാന്തത്തിന്റെ ചലനദിശയിലേക്കു തന്നെ നീങ്ങുതായി കാണം ഇവിടെ കാന്തവും ചാലകവും തമ്മിൽ ചെറിയൊരു വിടവുണ്ടാകും അത്തരത്തിൽ കാന്തവും ഏണിയും ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ ആപേക്ഷിക വേഗതയുണ്ടാകുന്നു അവസാനം വോൾട്ടേജ് Eയും വൈദ്യുതിയും കുറയുന്നതായി കാണാം ഈയൊരു ആശയത്തിൽ ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഭ്രമണത്തെ കുറിച്ച് മനസ്സിലാക്കാം ഇതിനെ സംബന്ധിച്ചുള്ള ചിത്രം പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുണ്ട് ഈയൊരു പരീക്ഷണത്തിൽ നാലു കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് വോൾട്ടേജ് E B I V അതിന്റെ ചാലകത്തിൽ ഉണ്ടാവുകയും അത് ഫ്ളക്സിനെ ഭേദിക്കുകയും ചെയ്യുന്നു ഇതാണ് ഫാരഡെ നിയമം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വൈദ്യുതിയുടെ ചാലകശക്തി ഉടനെ വൈദ്യുതി നിർമിക്കുകയും വൈദ്യുതി ചാലകത്തിനടിയിലൂടെ നീങ്ങി അവസാനത്തെ ദണ്ഡിനും മറ്റു ചാലകങ്ങളിലേക്കും എത്തുന്നു ആയതിനാൽ രണ്ട് വശത്തും കറണ്ട് I2 I2 എന്നിങ്ങനെയായിരിക്കും വൈദ്യുതി വഹിക്കുന്ന ചാലകം കാന്തിക മണ്ഡലത്തോട് അടുക്കുമ്പോൾ സ്ഥിരകാന്തത്തിന് ഒരു യാന്ത്രികോർജം അനുഭവപ്പെടുന്നു ഇതിനെയാണ് ലോറന്റ്സ് ബലം എന്നു പറയുന്നത് കാന്തികമണ്ഡലത്തിന്റെ ദിശയിലുള്ള ചാലകത്തെ വലിക്കുന്നതാണ് ലോറന്റ്സ് ബലം വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏണി ചലിക്കുന്നതിന് സ്വതന്ത്രമാണ് അതിന് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ത്വരണം വേണം എന്തിരുന്നലും ഏണി വേഗതയെടുക്കുമ്പോൾ ആപേക്ഷിക വേഗത കുറയുകയും ഉൽപാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജും വൈദ്യുതിയും വളരെ താഴുകയും ചെയ്യുന്നു തൽഫലമായി ചാലകത്തിലെ ബലവും ക്രമാതീതമായി കുറയുന്നു ഏണി വേഗതയിൽ കാന്തിക മണ്ഡലത്തിലേക്കു നീങ്ങുമ്പോൾ ആപേക്ഷിക വേഗത പൂജ്യമായിരിക്കും തൽഫലമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് E വൈദ്യുതി I ഉം ബലവും പൂജ്യം തന്നെയായിരിക്കും ആയതുക്കൊണ്ട് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഏണി അടച്ചുവച്ച് ഒരു സ്ക്യുറൽ കേജ് പോലെ മാറ്റിയെടുക്കുന്നു അതുപോലെ ചലിച്ചുക്കൊണ്ടിരിക്കുന്ന കാന്തത്തേയും മാറ്റി സ്ഥാപിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന കാന്തം എടുത്തുമാറ്റിയതിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ചിത്രം ഇവിടെ കാണാം അതിലെ യന്ത്രത്തിന് തൃഘട്ട കാന്തിക മണ്ഡലം ഉള്ളതായും കാണാം ഏണി വളച്ചു അടച്ചു വെച്ചാൽ അത് ഒരു സ്ക്വിറൽ കൂട് പോലെ തന്നെ കാണപ്പെടും അതുകൊണ്ടാണ് ഈ രേഖാചിത്രത്തിലുള്ള ഉദാഹരണം തന്നെ എടുത്തത് ഒരു ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ ഏണി അത് അടച്ചുവച്ച് ഒരു സ്ക്യുറൽ കേജിന്റെ രൂപത്തിലാവുകയും ചലിപ്പിച്ച് കൊണ്ടിരിക്കുന്ന കാന്തത്തേയോ അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലത്തേയോ മാറ്റി സ്ഥാപിക്കുന്നു ആയതിനാൽ മണ്ഡലം ത്രീഫേസ് വൈദ്യുതി ഉൽപാദിപ്പിക്കുകയും അത് സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു ഇത് ഒരു പുസ്തകത്തിൽ നിന്നുമെടുത്ത പദ്ധതിരൂപത്തിൽ ഉള്ള ഒരു രേഖാചിത്രം ആണ് ഇതിൽ കാണുന്ന പുറമേയുള്ള ഭാഗത്തെ സ്റ്റേറ്റർ എന്നാണ് പറയുന്നത് അതിന് അടുത്തുള്ള ഭാഗത്തെ റോട്ടർ എന്നും പറയും സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയിൽ ചെറിയെരു വിടവുണ്ട് ഇവിടെയാണ് ഒരു വായു വിടവ് ഉള്ളത് യന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ഈ വായു വിടവ് 0 424 മില്ലീമീറ്ററാണ് ഇത് എയെന്നും ഇത് ബിയെന്നും ഇത് സിയെന്നും കരുതുക ശരിക്ക്ും മൂന്ന് ഫേസുകളുണ്ട് ഈ മൂന്ന് ഫേസുകളാണ് A B C സമാനമായി റോട്ടറിന് അകത്തും TTLTL എന്നിങ്ങനെ കാണാൻ സാധിക്കും അതിനെ പറ്റി കൂടുതൽ ആശങ്ക വേണ്ട എന്തുകൊണ്ടെന്നാൽ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളു ഇതിനെ നമ്മൾ തൃഘട്ട ടെർമിനൽ എന്ന്് വിളിക്കുന്നു നമ്മൾ മൂന്നു ഘട്ടമായി പോലെ എ ബി സി ഇങ്ങനെ മൂന്നു ടെര്മിനലിസ് ആണ് ഉള്ളത് ഈ ടെർമിനലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ദണ്ഡിനെ അനന്ത ദണ്ഡുകൾ എന്നു വിളിക്കുന്നു ഇവിടെ വോൾടേജ് ഉം തരംഗ ദൈർഘ്യവും സ്ഥിരം ആയിരിക്കും എന്താണ് അനന്ത ദണ്ടുകൾ അതിൽ വോൾട്ടേജും ആവൃത്തിയും സ്ഥിരമായിരിക്കും ഭ്രമണ മണ്ഡലത്തിലെ സ്പീഡാണ് n എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക് ഒരു സൂത്രവാക്യം പരിഗണിക്കാം അതായത് ഏകകാലികമായ വേഗതയെ 120 f P എന്ന് എഴുതാം P ദണ്ഡുകളുടെ എണ്ണം ആണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് തരംഗദൈർഘ്യം f 50 ഹെർട്ട്സും p യന്ത്രത്തിന്റെ നാല് ധ്രുവങ്ങൾ ആയതുക്കൊണ്ട് ns 120 504 അപ്പോൾ ലഭിക്കുന്നത് 1500 RMP ഇതിനാൽ തന്നെ മോട്ടോറിന്റെ വേഗത 1500 RMPയിൽ കുറയില്ല ജനറേറ്ററിന്റെ കാര്യമാണെങ്കിൽ അത് 1500 ആർഎംപിക്ക് മുകളിലായിരിക്കും ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ ജനറേറ്ററിനെക്കുറിച്ചല്ല മോട്ടോറിനെക്കുറിച്ച് കുറച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് പൊതുവേ ഇത് ഒരു 4 ദണ്ഡുകൾ ഉള്ള യന്ത്രം ആണെന്ന് നമ്മൾ കണ്ടെത്തുന്നു എന്നാൽ 3 ഘട്ടങ്ങളിലുള്ള കാന്തിക മണ്ഡലം ഏകകാലികമായ വേഗതയിൽ കറങ്ങുന്നു ഉദാഹരണത്തിന് സുരക്ഷാ പിൻ 100 RMP ഈ n എന്നത് റോട്ടറിന്റെ വേഗതയാണ് ഇത് ഏകകാലികമായ വേഗത ആയ n നേക്കാൾ കുറവായിരിക്കും ചിത്രത്തിലുള്ളതു പോലെ ഗോളസ്തംഭത്തിന്റെ ആകൃതിയുള്ള സ്റ്റേറ്ററും റോട്ടർമുള്ള തൃഘട്ട റോട്ടർ യന്ത്രത്തെ പരിഗണിക്കുക മുകളിൽ കാണുന്നത് സ്റ്റേറ്റററാണ് ഉള്ളിലുള്ളത് റോട്ടറും അതിനിടയിലെ വായു കടക്കാനുള്ള ഒരു വിടവും അവിടെ കാണാം ഇപ്പോൾ തുടക്കത്തിൽ റോട്ടർ വിൻഡിംഗ് തുറക്കാൻ സർക്യൂട്ട് ചെയ്ത് സ്റ്റേറ്റർ അനന്തമായ ഒരു ബാറിലേക്ക് ബന്ധിപ്പിക്കട്ടെ അതായത് റോട്ടർ ഓപ്പൺ സർക്യൂട്ട് ആണ് അത് ഹ്രസ്വ പരിവാഹം അല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന റോട്ടർ ഓപ്പൺ സർക്യൂട്ട് ആണ് അതും സ്റ്റേറ്ററും വൈദ്യുതിയുടെ ചാലകശക്തിയും ആവൃത്തിയും സ്ഥിരമായ ഒരു സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു റോട്ടർ വൈൻഡിങ് ഓപ്പൺ സർക്യൂട്ടിലേക്കും സർക്യൂട്ട് സ്റ്റേറ്റർ അനന്ത ദണ്ഡുമായിയും ബന്ധിപ്പിക്കപ്പെടുന്നു ഇത് അർഥമാക്കുന്നത് റോട്ടർ ഓപ്പൺ സർക്യൂട്ടാണ് അത് ഷോർട്ട് സർക്യൂട്ട് അല്ലായെന്നാണ് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി നമുക്ക് പറയാവുന്നത് റോട്ടർ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് അതുപോലെ സ്റ്റേറ്റർ കറണ്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അവിടെ വോൾട്ടേജും ആവൃത്തിയും സ്ഥിരമാണ് സ്റ്റേറ്റർ വൈദ്യുതി വായു വിടവിൽ ഒരു കറങ്ങുന്ന കാന്തികക്ഷേത്രം സജ്ജമാക്കുന്നു ഇത് സ്റ്റേറ്റർ വിൻഡിംഗിൽ ഏകകാലികമായ വേഗതയിൽ പ്രവർത്തിപ്പിക്കുന്ന emf ടെർമിനൽ വോൾട്ടേജ് സന്തുലിതമാക്കുന്നു സ്റ്റേറ്റർ പ്രതിരോധവും ചോർച്ച പ്രതിപ്രവർത്തനവും നിസ്സാരമാണെന്ന അനുമാനത്തിൽ ഇപ്പോൾ സ്റ്റേറ്റർ ടെർമിനൽ ഒരു വോൾട്ടേജുമായി ബന്ധിപ്പിക്കുമ്പോൾ വിതരണം ചെയ്താലുടൻ വിതരണ വോൾട്ടേജ് ആകും അതിനാൽ സ്വാഭാവികമായും ആ വോൾട്ടേജ് സ്റ്റേറ്റർ വിൻഡിംഗിനെയും പ്രേരിപ്പിക്കും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലത്തെ ഉൽപ്പപാദിപ്പിക്കുന്നു ഈ കാന്തിക മണ്ഡലം ഏകകാലികമായ വേഗതയിൽ ചുറ്റും കറങ്ങുന്നു ഇതിന ns എന്നു പറയുന്നു ഇത് എഫ് വൺ ആണ് അതായത് എംഎംഎഫ് അത് സ്വേച്ഛയാണ് ഏകകാലികമായ വേഗതയിൽ ചുറ്റും കാന്തിക മണ്ഡലം വലം വയ്ക്കുന്നുണ്ട് എന്നാൽ അത് ദൃശ്യമാകില്ല കാന്തിക മണ്ഡലത്തെ അറിയുന്നതുപോലെ വോൾട്ടേജ് വൈദ്യുതിയെ ഒരിക്കലും കാണാൻകഴിയില്ല പക്ഷേ അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അതിന്റെ തരംഗം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അതിനാൽ തന്നെ ഫ്ളക്സ് എന്നാത് കാണാവുന്ന തരത്തിലുള്ളതല്ല അത് അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയുകയുള്ളൂ നമ്മളിവിട അതിന്റെ തരംഗം ഒരു മാതൃക രൂപം ചെയുന്നത് കണ്ടു പക്ഷേ അത് എങ്ങനെ രൂപപ്പെടുവെന്നത് കണ്ണുക്കൊണ്ട് കാണാൻ കഴിയില്ല അതിനാൽ സ്റ്റേറ്റർ വൈദ്യുതി വായു വിടവിൽ ഒരു കറങ്ങുന്ന കാന്തികക്ഷേത്രം സജ്ജമാക്കുന്നു അത് സ്റ്റേറ്റർ വിൻഡിംഗിൽ ഏകകാലികമായ വേഗതയിൽ ഇഎംഎഫ് വർദ്ധിപ്പിക്കുന്നു എന്ന് F1 കാണിച്ചു ഇത് സ്റ്റേറ്റർ പ്രതിരോധവും ചോർച്ച പ്രതിപ്രവർത്തനവും ആണെന്ന അനുമാനത്തിൽ ടെർമിനൽ വോൾട്ടേജിനെ സന്തുലിതമാക്കുന്നു നിസ്സാരമാണോ ഇപ്പോൾ റോട്ടറിന്റെ ഭ്രമണ മണ്ഡലവും റോട്ടർ വിൻഡിങ്ങിൽ ഇ എഫ് ഉൽപാദിപ്പിക്കുന്നുണ്ട് എന്നാൽ റോട്ടർ ഓപൺ സർക്യൂട്ട് ആയതിനാൽ തന്നെ റോട്ടർ വൈദ്യുതിക്ക് പ്രവഹിക്കാൻ കഴിയുകയില്ല റോട്ടർ ഭ്രമണം ചെയ്യാത്തതുകൊണ്ടു തന്നെ റോട്ടർ emf ന്റെ ആവൃത്തി എഫ് ആകുന്നു റോട്ടർ ഒരു തുറന്ന മണ്ഡലം ആയതിനാൽ അതിൽ വൈദ്യുതി ഉണ്ടാവില്ല അങ്ങനെയെങ്കിൽ റോട്ടർ mmf F2 പൂജ്യമായിരിക്കും ആയതിനാൽ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് F20 എന്നാണ് ഇവിടെ ടോർക്ക് ഉണ്ടാകുന്നില്ല റോട്ടർ ചലിക്കാതെ അവിടെ തന്നെ സ്ഥിരമായി തുടരുന്നു ഇപ്പോൾ യന്ത്രം ഒരു വിദ്യുത്കാന്തയന്ത്രo പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇതിലെ സ്റ്റേറ്ററിനെ പ്രാഥമിക വിദ്യുത്കാന്തയന്ത്രo എന്നു വിളിക്കുന്നു റോട്ടറിനെ ദ്വിതീയ വിദ്യുത്കാന്തയന്ത്രo എന്നു വിളിക്കുന്നു ഒരു സാധാരണ വിദ്യുത്കാന്തയന്ത്രത്തിലെന്ന നിശ്ചിത സമയ വ്യതിയാന ഫ്ലക്സിലൂടെയല്ല ഭ്രമണം ചെയ്യുന്ന കാന്തിക ഫ്ലക്സ് വഴി രണ്ട് വസ്തുക്കളിലും ഒരേ ആവൃത്തിയുടെ emf ഉണ്ട് pi pi maxsine w T എന്ന് അനുമാനിക്കുക എന്നാൽ ഇവിടെ അത് ഒരു സാധാരണ ട്രാൻസ്ഫോമറിലെന്നപോലെ നിശ്ചലമായ വ്യത്യസ്ത ഫ്ലക്സ് ആയിരുന്നു ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാന്തികമണ്ഡലം സ്റ്റേറ്റർ വിൻഡിങ്ങിലേക്ക് തൃഘട്ട വൈദ്യുതി വിതരണം നൽകുന്നുണ്ട് റോട്ടറിനെ ചലിപ്പിക്കാൻ വിടാതെ നിർത്തിയെന്നു കരുതുക ഇപ്പോഴത് തുറന്ന വൈദ്യുതീപരിവാഹo അല്ല ഹ്രസ്വ പരിവാഹം ആയി മാറുന്നു ഇവിടെ റോട്ടർ തൃഘട്ട വൈദ്യുതി mmf F2 സ്റ്റേറ്റർ മണ്ഡലത്തിലെ സ്പീഡോടു കൂടി ഉൽപാദിപ്പിക്കപ്പെടുന്നു ഇവിടെ ചിത്രത്തിൽ F2 കാണാം ഇവിടെ റോട്ടറിനെ ചലിപ്പിക്കാൻ അനുവദിക്കുന്നില്ല ഇവിട റോട്ടറിന്റെ കറക്കത്തെ ns n എന്നിങ്ങനെ സൂചിപ്പിക്കാം റോട്ടറിനെ കറങ്ങാൻ അനുവദിക്കാതിരിക്കുമ്പോൾ അതിനെ F2 എന്ന് സൂചിപ്പിക്കാം യഥാർഥത്തിൽ ഈ nsന് mmf ന്റെ സ്പീഡിൽ എന്താണ് സംഭവിക്കുക സ്റ്റേറ്ററിനെ സംബന്ധിച്ചിടത്തോളെ അത് വെറുമൊരു ns മാത്രമാണ് എന്നാൽ നമ്മൾ റോട്ടറിനെ കറങ്ങാൻ അനുവദിക്കുന്നില്ലായെന്ന ഓർക്കണം എന്നാൽ പെട്ടെന്നു തന്നെ റോട്ടാർ കറങ്ങാൻ തുടങ്ങുകയും ആപേക്ഷിക വേഗത കൊണ്ട് ns n ആവുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് റോട്ടർ സ്ഥിരതയിൽ തുടരുകയും റോട്ടർ വിൻഡിങ് ഹ്രസ്വ പരിവാഹം ആ വുകയും ചെയ്യും അതിനാൽ സ്റ്റേറ്റർ ഫീൽഡിന്റെ അതേ വേഗതയിൽ റോട്ടർ തിരിക്കാൻ അനുവദിക്കില്ല ഇപ്പോൾ വിദ്യുത്കാന്തയന്ത്രം F2 ബസ്സ്ബാർ നിന്ന് പ്രതിപ്രവർത്തന പ്രവാഹങ്ങൾ സ്റ്റേറ്ററിലേക്ക് ഒഴുകാൻ ഇടയാക്കുന്നു ഫലമായുണ്ടാകുന്ന ഫ്ലക്സ് ഡെൻസിറ്റി തരംഗത്തിന്റെ ∅r എന്ന ധ്രുവത്തിലേക്കുള്ള ഫ്ലക്സ് ടെർമിനൽ വോൾട്ടേജിനെ സന്തുലിതമാക്കാൻ ഒരു സ്റ്റേറ്റർ emf നെ പ്രേരിപ്പിക്കുന്നു ഇതാണ് തത്ത്വചിന്ത ഒരു പരിധിവരെ ട്രാൻസ്ഫോർമർ പോലെയാകും അങ്ങനെ F2 ഒരു പ്രതികരണ പ്രവാഹം ബസ്ബാറിൽ നിന്ന് സ്റ്റേറ്ററിലേക്ക് ഒഴുകാൻ ഇടയാക്കുന്നു തത്ഫലമായുണ്ടാകുന്ന ഫ്ലക്സ് ഡെൻസിറ്റി തരംഗത്തിന്റെ ഒരു phi ∅r എന്ന ധ്രുവത്തിലേക്കുള്ള ഫ്ലക്സ് ടെർമിനൽ വോൾട്ടേജ് സന്തുലിതമാക്കാൻ ഒരു സ്റ്റേറ്റർ emf നെ പ്രേരിപ്പിക്കുന്നു കാരണം ഇപ്പോൾ റോട്ടറിൽ കൂടി വൈദ്യുതി ഒഴുകുന്നു ഇപ്പോൾ മെഷീൻ ലോഡുചെയ്യുമ്പോഴും റോട്ടർ തുറന്ന സർക്യൂട്ട് ആകുമ്പോൾ ∅r സമാനമായിരിക്കണം ഈ ∅r കൂടുതൽ നിലനിൽക്കും അല്ലെങ്കിൽ സ്ഥിരമായിരിക്കും വാസ്തവത്തിൽ മോട്ടറിലെ ലോഡ് സൃഷ്ടിച്ച പ്രവർത്തന അവസ്ഥയിൽ നിന്ന് ∅r സ്ഥിരമായി സ്വതന്ത്രമായി തുടരും ഇപ്പോൾ ∅r F2 എന്നിവയുടെ പരസ്പരവ്യവഹാരത്തിന്റെ ഫലമായ ∅r and F2 പരസ്പരം ബന്ധപ്പെട്ട് നിശ്ചലമാണ് Fr ന്റെ ദിശയിലേക്ക് റോട്ടർ നീക്കാൻ ടോർക്ക് സൃഷ്ടിക്കുന്നു അതിനാൽ ഇൻഡക്ഷൻ യന്ത്രം Induction motor സ്വയം ആരംഭിക്കുന്ന ഉപകരണമാണ് അതിനാൽ∅r ഉം F2 ഉം തമ്മിലുള്ള പരസ്പരബന്ധം നിശ്ചലമാണ് ഇത് ടോർക്ക് സൃഷ്ടിക്കുകയും റോട്ടറിനെ Fr ദിശയിലേക്ക് നീക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ആ രേഖാചിത്രത്തിൽ ഇത് കാണിച്ചിരിക്കുന്നു ഇതാണ് ഫലമായ ഫ്ലക്സ് ∅r ഉം F2 ഉം പരസ്പരം ഇടപഴകുന്നത് ഇത് ഈ പ്രദേശത്തിന്റെ ദിശയായിരിക്കും അല്ലെങ്കിൽ ദിശ ഈ Fr ആയിരിക്കും അതിനാൽ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ∅r F2 Fr ദിശയിലേക്ക് റോട്ടറിനെ ചലിപ്പിക്കുന്ന ടോർക്ക് സൃഷ്ടിക്കുന്നു അതിനാൽ ഇൻഡക്ഷൻ മോട്ടോർ ഒരു സ്വയം ആരംഭിക്കുന്ന ഉപകരണമാണ് അതിനാൽ ഹ്രസ്വ പരിവാഹം ചെയ്ത റോട്ടർ ഇപ്പോൾ കറങ്ങാൻ അനുവദിക്കുക റോട്ടർ കറങ്ങുന്ന തരത്തിൽ സ്വതന്ത്രമാക്കുക ഇപ്പോൾ അത് കറങ്ങുകയാണെങ്കിൽ അത് സ്റ്റേറ്റർ ഫീൽഡിന്റെ ദിശയിലേക്ക് നീങ്ങുകയും n ന്റെ സ്ഥിരമായ അവസ്ഥയിൽ ഉള്ള വേഗത കൈവരിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് സമന്വയിപ്പിച്ച അതേ ns വേഗതയിൽ ആ യന്ത്രം Frന്റെ ദിശയിലേക്ക് തിരിക്കും എന്നാൽ ഇപ്പോൾ റോട്ടർ ഒരേ ദിശയിലേക്കോ കാന്തിക മണ്ഡലത്തിലേക്കോ കറങ്ങുന്നു അതിനാൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും റോട്ടർ n വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു n എന്നത് ns നേക്കാൾ കുറവാണ് അതിനർത്ഥം r ന്റെ അതേ ദിശയിൽ റോട്ടർ കറങ്ങും ആ കറങ്ങുന്ന കാന്തികക്ഷേത്രത്തെ എന്താണ് വിളിക്കേണ്ടത് പക്ഷേ അത് ഒരിക്കലും ns പിടിക്കില്ല ns പിടിക്കുകയാണെങ്കിൽ n ന്റെ ആപേക്ഷിക വേഗത പിന്നീട് 0 ആകും അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് n ന്റെ സ്ഥിരമായ വേഗത കൈവരിക്കുന്ന സ്റ്റേറ്റർ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു വ്യക്തമായും n എന്നത് ns നേക്കാൾ കുറവാണ് കാരണം n ns ആണെങ്കിൽ സ്റ്റേറ്റർ ഫീൽഡും റോട്ടർ വിൻഡിംഗും തമ്മിലുള്ള ആപേക്ഷിക വേഗത 0 ആയിരിക്കും അതിനാൽ പ്രേരിപ്പിച്ച emf റോട്ടർ വൈദ്യുതധാരകൾ 0 ആയിരിക്കും അതിനാൽ ഒരു ടോർക്കും ഇവിടെ വികസിപ്പിച്ചിട്ടില്ല അതിനാൽ റോട്ടറിന് സമന്വയ വേഗതയിൽ എത്താൻ കഴിയില്ല അത് തെന്നിമാറും യഥാർത്ഥത്തിൽ ഇൻഡക്ഷൻ മോട്ടറിനാണ് n എന്നത് ns ൽ കുറവായിരിക്കണം റോട്ടർ n ൽ പ്രവർത്തിക്കുമ്പോൾ റോട്ടർ കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റർ ഫീൽഡിന്റെ ആപേക്ഷിക വേഗത ns n ആണ് കാരണം രണ്ടും ഒരേ ദിശയിൽ ചലിക്കുന്നതിനാൽ ns ന്റെ ദിശയിൽ റോട്ടറിലെ ഇൻഡുസ്ഡ് ഇഎംഎഫിന്റെയും കറന്റിന്റെയും ആവൃത്തി ns n 120 F2 P ആയിരിക്കും അതാണ് F2 യഥാർത്ഥത്തിൽ റോട്ടർ ആവൃത്തി ഇത് ns n ആണ് ആപേക്ഷിക വേഗത ns n 120 F2 P ഇപ്പോൾ F2 F2 P ns n 20 എന്ന് എഴുതാം പിന്നെ ഹാരകവും ഭിന്നസംഖ്യാഛേദവും ns ഹാരകവും ഭിന്നസംഖ്യാഛേദവും കൊണ്ട് ഗുണിക്കുന്നു ഈ ഭാഗം ns n ns ഈ ഭാഗം സ്ലിപ്പ് ആണെന്ന് ഞങ്ങൾ നിർവ്വചിക്കുന്നു ഈ ഭാഗം f ആണ് കാരണം ns 120 നേരത്തെ 120 f P കാണിച്ചു അതിനാൽ P 120 fns അതിനാൽ ഇത് n ns P 120 എന്ന് എഴുതാം അതിനാൽ ഈ ഭാഗം s ഉം ഈ ഭാഗം f f P ns ഉം ആണ് ഇതിനെക്കാൾ f P ns 120 ഈ സമവാക്യം f ൽ നിന്ന് എഴുതുക അതിനാൽ റോട്ടർ ഒരു സ്ലിപ്പോടുകൂടി നീങ്ങുമ്പോൾ റോട്ടർ ആവൃത്തി F2 s f ആണെങ്കിലും s ns n s അതിനാൽ ഇതിനെ റോട്ടറിന്റെ സ്ലിപ്പ് എന്ന് വിളിക്കുന്നു സ്ലിപ്പ് s ആണ് യൂണിറ്റ് വേഗത ഇത് സ്റ്റേറ്റർ ഫീൽഡിന് പിന്നിൽ റോട്ടർ സ്ലിപ്പ് ചെയ്യുന്ന ഏകകാലികമായ വേഗതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അളവ് കുറവാണ് അതിനാൽ ns n എന്നത് ns കൊണ്ട് ഹരിച്ച വേഗതയിലെ വ്യത്യാസമാണ് ഇത് ഒരു അളവ് കുറഞ്ഞ അളവാണ് അതിനാൽ ഞങ്ങൾ സ്ലിപ്പ് എസ് എന്ന് വിളിക്കുന്നു റോട്ടർ ആവൃത്തി F2 sf സ്ലിപ്പ് ആവൃത്തി എന്ന് വിളിക്കുന്നു പക്ഷേ ആ സമയത്ത് മെഷീൻ നിശ്ചലമായി നിൽക്കുമ്പോൾ s 1 കാരണം ആ സമയത്ത് n 0 റോട്ടർ ചലിക്കുന്നില്ല അതിനാൽ ആ സമയത്ത് s നിശ്ചലമായി നിൽക്കും അതിനാൽ സമവാക്യം 2 ൽ നിന്ന് എളുപ്പത്തിൽ n 1 s n s എഴുതാൻ കഴിയും അതിനാൽ ഇത് സമവാക്യം 3 ആണ് സമവാക്യം 1 ൽ നിന്ന് 120 s f P f2 എന്നും എഴുതാം sf അതിനാൽ 120 sf P ns n ഇതാണ് സമവാക്യം 4 റോട്ടർ n വേഗതയിൽ പ്രവർത്തിക്കുന്നതിനാലും റോട്ടർ ഫീൽഡ് ഒരേ ദിശയിൽ റോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ns n വേഗതയിൽ പ്രവർത്തിക്കുന്നതിനാലും സ്റ്റേറ്ററിൽ നിന്ന് കാണുന്നതുപോലെ റോട്ടർ ഫീൽഡിന്റെ മൊത്ത വേഗത n ns n n s ആയിരിക്കും റോട്ടർ n വേഗതയിൽ പ്രവർത്തിക്കുന്നതിനാലും റോട്ടർ ഫീൽഡ് ഒരേ ദിശയിൽ റോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ns n വേഗതയിൽ പ്രവർത്തിക്കുന്നതിനാലും സ്റ്റേറ്ററിൽ നിന്ന് കാണുന്നതുപോലെ റോട്ടർ ഫീൽഡിന്റെ മൊത്ത വേഗത n s ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ വീണ്ടും രേഖാചിത്രത്തിലേക്ക് പോകുന്നത് ഇത് ns n ആണ് റോട്ടറിനെ സംബന്ധിച്ചിടത്തോളം n ചേർത്താൽ എന്തായിരിക്കും അതിനാൽ യഥാർത്ഥത്തിൽ റോട്ടർ ഫീൽഡിന്റെ വേഗത എന്തായിരിക്കും ഇത് ടോർക്കിന്റെ ദിശയാണ് ഈ പദ്ധതി രൂപത്തിലുള്ള രേഖാചിത്രത്തിൽ നിന്നാണ് അത് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുക ഒരു കാര്യം ഉണ്ട് ഈ F2 F ഈ F1 Fr F2 എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിശ്ചലമാണ് ഇതും ns ഉപയോഗിച്ച് നീങ്ങുന്നു അതിനാൽ ഇതെല്ലാം നിശ്ചലമായിരിക്കും കാരണം ഇത് Fr നും F2 നും ഇടയിലുള്ള ആംഗിൾ ഡെൽറ്റയാണ് അതിനാൽ ഇതെല്ലാംനിശ്ചലമായി തുടരും അതിനാൽ റോട്ടറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്ററിൽ നിന്ന് കാണുന്ന അതേ ദിശയിലുള്ള റോട്ടർ ഫീൽഡിന്റെ ആകമാനമുള്ള വേഗത ns ആയി തുടരും അതിനാൽ അത് സ്റ്റേറ്റർ ഫീൽഡിന് തുല്യമാണ് അതായത് റോട്ടർ ഫീൽഡും സ്റ്റേറ്റർ ഫീൽഡും ഒരേ വേഗതയിൽ നീങ്ങുന്നു അങ്ങനെ റോട്ടറിന്റെ പ്രതിപ്രവർത്തന ഫീൽഡ് F2 സ്റ്റേറ്റർ ഫീൽഡ് F1 അല്ലെങ്കിൽ ഫലവുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും സ്റ്റേഷനറി ആണ് ഫീൽഡ് Fr അതിനർത്ഥം ആക്ഷൻ ഫീൽഡ് F2 ആണ് നമ്മൾ അത് രേഖാചിത്രത്തിൽ വരച്ചിട്ടുണ്ട് റോട്ടറിന്റെ സ്റ്റേറ്റർ ഫീൽഡ് F1 അല്ലെങ്കിൽ ഫലമായ ഫീൽഡുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും നിശ്ചലമായിരിക്കും ഇപ്പോൾ ഡെൽറ്റയുമായി ബന്ധിപ്പിച്ച സ്റ്റേറ്ററും സ്റ്റാറിനോട് ബന്ധിപ്പിച്ച റോട്ടറും ഉള്ള മൂന്ന് ഘട്ട സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ സർക്യൂട്ട് രേഖാചിത്രo ഇതിൽ കാണിച്ചിരിക്കുന്നു ഇതാണ് സ്റ്റേറ്റർ വിൻഡിംഗ് ഇതാണ് മൂന്നു ഘട്ടങ്ങൾ ആയുള്ള സപ്ലൈ ഈ റോട്ടർ വിൻഡിംഗ് E2 റോട്ടറിൽ പ്രേരിപ്പിക്കുന്ന വോൾട്ടേജ് നമുക്ക് പിന്നീട് കാണാം ബ്രഷുകൾ സ്ലിപ്പ് വളയങ്ങൾ ഉണ്ട് അത് ആരംഭിക്കുന്ന സമയത്ത് പ്രതിരോധത്തിലൂടെ ചെറുതാക്കും 2 3 വർഷങ്ങളിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ പരീക്ഷണം നടത്തും ആ സമയത്ത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പരീക്ഷണം t റോട്ടർ യന്ത്രത്തിൽ കാണാം അതിനാൽ ഈ സാഹചര്യത്തിൽ റോട്ടർ അല്ലെങ്കിൽ റോട്ടർ വിൻഡിംഗ് സ്ലിപ്പ് റിംഗുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അവ ആരംഭിക്കുന്ന സമയത്ത് ബാഹ്യ പ്രതിരോധത്തിലൂടെ ചുരുക്കിയിരിക്കുന്നു മോട്ടോർ പൂർണ്ണ വേഗത കൈവരിക്കുന്നതിനാൽ പ്രതിരോധങ്ങൾ മുറിച്ചുമാറ്റി ഇവിടെ പ്രതിരോധം കാണിക്കുന്നില്ല അതിനാൽ ഈ സ്ക്വിറൽ കേജ് മോട്ടോറിന്റെ റോട്ടറിന് അവിടെ സ്ഥിരമായി ചെറുതാക്കിയ ദണ്ഡുകൾ ഉണ്ടായിരുന്നു അതിനാൽ ഇത് ഒരു സർക്യൂട്ട് പോയിന്റിൽ നിന്നോ തുല്യമായ വൂണ്ട് റോട്ടറിൽ നിന്നോ മാറ്റിസ്ഥാപിക്കാനാകും സ്ക്വിറൽകേജ് മോട്ടോറിന്റെ കാര്യത്തിൽ റോട്ടർ ചെറുതായതിനാൽ ഇതെല്ലാം അവിടെയില്ല അതിനാൽ സമവാക്യം 2 ൽ നിന്ന് നമുക്ക് സ്ലിപ്പ് ns n ns എഴുതാം ഇതിനെ ns n എന്നാണ് സ്ലിപ്പ് വേഗത എന്നും ഇതിനെ ഏകകാലികമായ വേഗത എന്നും വിളിക്കുന്നത് ചിലപ്പോൾ ഇത് നമ്മുടെ സ്ലിപ്പ് വേഗത ആണെങ്കിൽ അത് സംഖ്യാശാസ്ത്രമാണെങ്കിൽ നമുക്ക് E2 ns n ന്റെ വ്യത്യാസം എടുക്കും ഇത് മോട്ടോറിന് ആയിരിക്കും അത് എല്ലായ്പ്പോഴും സംശയാതീതമായിരിക്കും അതിനാൽ s 1 n ns ഇത് സമവാക്യമാണെന്ന് പറയുന്നു ഇപ്പോൾ വ്യക്തമായും n 0 എന്നത് റോട്ടറാണ് നിശ്ചലമായത് എന്നാണ് കാണിക്കുന്നത് s 1 എന്നത് നിശ്ചലമായ റോട്ടറിനുള്ളതാണ് കൂടാതെ s 0 n s അത് ഏകകാലികമായ വേഗതയിൽ പ്രവർത്തിക്കുന്ന റോട്ടറി ന്റെ ആണ് അതിനാൽ സമവാക്യം 1 ൽ നിന്ന് റോട്ടറിൽ വർദ്ധിപ്പിച്ച വൈദ്യുതധാരയുടെ ആവൃത്തി F2 sf ന് തുല്യമാണ് ഇത് നമ്മൾ കണ്ടു ഇൻഡക്ഷൻ മോട്ടോറിന്റെ സാധാരണ പൂർണ്ണ ലോഡ് സ്ലിപ്പ് 2 മുതൽ 8 വരെയാണ് അതിനാൽ റോട്ടറിന്റെ ആവൃത്തി 1 മുതൽ 4 ഹെർട്സ് വരെ കുറവാണ് ഇത് 2 ഉം സ്ലിപ്പ് 2 ഉം ആണെങ്കിൽ ആ f 50 ഹെർട്സ് ആണ് അത് ആയിരിക്കും F2 1 ഹെർട്സ് ആണ് കാരണം 02 50 ആണ് അതിനാൽ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും അടുത്തത് സ്റ്റേറ്റർ emf ആണ് E1 π √2 ആയി നൽകിയിരിക്കുന്നത് ട്രാൻസ്ഫോർമർ Kw1 N ∅1 f ∅r പോലെ അതിനാൽ Kw1 ഒരു വസ്തുതാപരമായ ഘടകമാണ് ഇത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അത് മനസ്സിൽ വയ്ക്കുക കാരണം മൂന്നാം വർഷ ഇൻഡക്ഷൻ മെഷീനിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും ഇത് N ഘട്ടം1 ആണ് അത് Nfh 1 ആണ് അതാണ് സ്റ്റേറ്റർ സൈഡ് യഥാർത്ഥത്തിൽ തിരിവുകളുടെ എണ്ണം Nph 1 ആണ് f ആണ് ആവൃത്തി ∅r എന്നത് ഒരു ധ്രുവത്തിലെ ഫ്ലക്സ് ആണ് അതിനാൽ ഓരോ ഘട്ടത്തിലും റോട്ടർ emf s 1 ആണ് സ്റ്റാൻഡ്സ്റ്റിൽ റോട്ടർ നൽകിയിരിക്കുന്നത് ആ സമയത്ത് s 1 റോട്ടർ നിശ്ചലമായിരിക്കുമ്പോൾ f എന്നത് π √2 Kw2 Nph 2 f∅r ആയിരിക്കും അതാണ് ട്രാൻസ്ഫോർമർ π √2ൽ ചെയ്യുന്നത് അത് ഗുണിച്ചാൽ 4 44 ആയി മാറും ഇത് വിൻഡിംഗ് ഫാക്ടർ ആണ് Kw2 നെ റോട്ടറിന്റെ വൈൻഡിംഗ് ഫാക്ടർ എന്നും വിളിക്കുന്നു കൂടാതെ ഈ പ്രാഥമിക വശം പോലെ ഇത് ദ്വിതീയ വശം പോലെയാണ് അതിനാൽ E1 സ്റ്റേറ്റർ ഓരോ ഘട്ടത്തിലും ഇ എഫ് E2 ഓരോ ഘട്ടത്തിലും ഇ Kw1 എന്നത് സ്റ്റേറ്റർ വിൻഡിംഗ് ഫാക്ടർ ആണ് Kw2 എന്നത് റോട്ടർ വിൻഡിംഗ് ഫാക്ടർ Nph1 സ്റ്റേറ്റർ ഓരോ ഘട്ടത്തിലും തിരിയുന്നത് Nph2 റോട്ടർ ഓരോ ഘട്ടത്തിലും തിരിയുന്നത് എന്തുകൊണ്ടാണ് ഈ വസ്തു കൈമാറുന്നത് ∅r എന്നത് ഓരോ ധ്രുവത്തിലും അതിന്റെ ഫലമായുണ്ടാകുന്ന എയർ ഗ്യാപ് ഫ്ളക്സ് ഇപ്പോൾ S ആയ ഏത് സ്ലിപ്പിലും റോട്ടർ ആവൃത്തി sf ആയതിനാൽ റോട്ടർ വർദ്ധിപ്പിച്ച ഇ എഫ് SE2 ലേക്ക് മാറുന്നു റോട്ടർ ആവൃത്തി ഇപ്പോൾ F2 sf ആയി മാറുന്നു അതിനാൽ റോട്ടർ വർദ്ധിപ്പിച്ച ഇ എഫ് യഥാർത്ഥത്തിൽ SE2 ആയിരിക്കും അതിനാൽ സ്ലിപ്പ് ഒന്നാണെങ്കിൽ അത് E2 ആണ് എന്നാൽ ആ റോട്ടർ പ്രവർത്തിക്കുമ്പോൾ അതിന് സ്ലിപ്പ് ഉണ്ടായിരിക്കും അത് ഈ രീതിയിൽ SE2 ആയിരിക്കും അതിനാൽ ഇപ്പോൾ Z2 r2 jX2 എന്നതിനായുള്ള റോട്ടർ സർക്യൂട്ടിന്റെ ഇംപെഡൻസ് സ്ലിപ്പ് 1 ആകുമ്പോൾ അത് നിശ്ചലമാകുമ്പോൾ പരിഗണിക്കുക ഇപ്പോൾ X 2 എന്നത് നിശ്ചലാവസ്ഥയിൽ ഉള്ള റോട്ടറിന്റെ ചോർച്ച പ്രതിപ്രവർത്തനം അത് റോട്ടർ ആവൃത്തി സ്റ്റേറ്റർ ആവൃത്തി അത് f ആണ് ഇപ്പോൾ s എന്ന സ്ലിപ്പിൽ റോട്ടർ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആവൃത്തി sf ആണ് ആവൃത്തി മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇംപെഡൻസ് r2 jX2 ലേക്ക് മാറുന്നു ആവൃത്തി sf ആയതിനാൽ x L ω എന്ന് കരുതുക Ω 2 pi f ന് തുല്യമാണ് അതിനാൽ 2 pi fω r2 pi f ഈ L ω എഴുതുക L അതിനാൽ എന്നാൽ റോട്ടർ ആവൃത്തി F2 ആയി മാറും F2 sf L ആയിരിക്കും അതിനാൽ അത് 2 pi f ആയിരിക്കും s എന്നത് s x ആണ് അതിനാൽ ഇത് റോട്ടർ ആവൃത്തിയാണ് ഇപ്പോൾ റോട്ടർ പ്രവർത്തിക്കുന്നു അതിന്റെ ഇംപെഡൻസ് r2 j s X 2 ആയിരിക്കും r2 പ്രതിരോധമാണ് എന്നാൽ ഈ പ്രതിപ്രവർത്തനം ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ റോട്ടർ വൈദ്യുതധാരയുടെ ആവൃത്തി ഉത്പാദിപ്പിച്ച ഇ എം എഫ് കൂടാതെ പ്രതിപ്രവർത്തനം എന്നിവ സ്ലിപ്പിന്റെ നേർ അനുപാതത്തിൽ വ്യത്യാസപ്പെടുന്നു കാരണം ഒരു റോട്ടർ കറങ്ങുമ്പോൾ അത് ആവൃത്തിയിലുള്ള ഒരു ഉത്പാദിപ്പിച്ച ഇഎംഎഫ് വൈദ്യുതിയും റിയാക്റ്റൻസും മാറ്റുന്നു കാരണം ഇത് എഫ് ആണ് പൊതുവേ നമുക്ക് L ω അറിയാം എന്നാൽ റോട്ടറിന്റെ കാര്യത്തിൽ അത് F2 ആയിരിക്കും ആവൃത്തി F2 s f അങ്ങനെ അതുകൊണ്ടാണ് S ഇവിടെയുള്ളത് ഇപ്പോൾ ചിത്രം 6 കാണിക്കുന്നത് സ്ലിപ് S ഇൽ ഉള്ള റോട്ടർ സർക്യൂട്ട് ആണ് ഇതിനെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ റോട്ടർ സർക്യൂട്ട് എന്ന് പറയാം റോട്ടർ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ഇത് r2 പ്രതിരോധമാണ് ഈ s X2 ഇത് ഒരു വേരിയബിൾ ചിഹ്നമായി നൽകിയിരിക്കുന്നു ഇതാണ് നിലവിലെ 2 അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് റോട്ടർ സർക്യൂട്ട് ആണ് കാരണം റോട്ടർ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നതിനാൽ ഇത് ഒരു അടഞ്ഞ പാതയാണ് ഇപ്പോൾ സർക്യൂട്ടിന്റെ ഫേസ് ആംഗിൾ 2 tan 1s x 2 r2 ആണ് അതാണ് ലാഗിംഗ് ഇപ്പോൾ E1 E2 എന്നത് Kw1 Nph1 Kw2 Nph 2 N1 N2 ആയിരിക്കും N1 Kw1 Nph1 N2 Kw2 Nph 2 അത് a അടുത്തതായി സർക്യൂട്ട് മാതൃകയുടെ വികസനം അതിനാൽ സർക്യൂട്ട് മാതൃക ഒരു ട്രാൻസ്ഫോർമറിന് സമാനമാണ് E1 E2 a a എന്നത് N1 N2 ആണ് കൂടാതെ നിലവിലെ I2 2 1 a ട്രാൻസ്ഫോർമർ ചെയ്ത രീതി കൂടാതെ E2 സ്റ്റാൻഡ്സ്റ്റിൽ റോട്ടർ emf അതിനാൽ നമ്പർ 2 ട്രാൻസ്ഫോർമറിലെന്നപോലെ സ്റ്റേറ്റർ വൈദ്യുതിയുടെ കാന്തിക വൈദ്യുതിയുടെ ഘടകം Im സ്റ്റേറ്റർ ഇൻഡുസ്ഡ് emf E1 നെ 90o ഡിഗ്രി പിന്നിലാക്കുന്നു നമ്പർ 3 ഇൻഡക്ഷൻ മോട്ടോർ വോൾട്ടേജും വൈദ്യുതി അളവും മാറ്റുന്ന ഒരു ട്രാൻസ്ഫോർമർ മാത്രമല്ല വാസ്തവത്തിൽ ഇത് ഒരു സാമാന്യവൽക്കരിച്ച ട്രാൻസ്ഫോർമർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ആവൃത്തിയും സ്ലിപ്പിന് ആനുപാതികമായി രൂപാന്തരപ്പെടുന്നു റോട്ടർ പ്രേരിത emf SE2 ഉം റോട്ടർ പ്രതിപ്രവർത്തനം ഉം ആണ് ഇപ്പോൾ ട്രാൻസ്ഫോർമർ പോലെയുള്ള തത്തുല്യമായ സർക്യൂട്ട് ലഭിക്കുമ്പോൾ അതിന്റെ പ്രധാന നഷ്ട ഘടകം അവഗണിക്കപ്പെടുന്നു ഇത് സ്റ്റേറ്റർ വശം ആണ് ട്രാൻസ്ഫോർമറിലെ പോലെ പ്രാഥമിക വശം r 1 x 1 കറന്റ് 1 ആണ് ഈ കറന്റ് I2 ആണ് I1 m 2 ഇപ്പോൾ ഞങ്ങൾ ഒരു അനുയോജ്യമായ ട്രാൻസ്ഫോർമർ നിർമ്മിക്കുന്നു ഇവ വോൾട്ടേജ് E 1 ആണ് ഈ വശം ആവൃത്തി f ആണ് കൂടാതെ Pm ഓരോ ഘട്ടത്തിലും ഒരു യന്ത്രികോർജ ഉത്പന്നം ആണ് അത് 3 കൊണ്ട് ഹരിച്ചിരിക്കുന്നു ഇത് ചിത്രം 7a ആണ് ഇത് റോട്ടർ സർക്യൂട്ട് ഫ്രീക്വൻസി F2 sf ആണ് ഒരു റോട്ടർ സർക്യൂട്ട് SE2 ന്റെ വോൾട്ടേജും ഇത് r2 SX2 ആണ് ഇത് I 2 ആണ് അതിനാൽ അടുത്തത് ഇതാണ് ആദ്യത്തെ സർക്യൂട്ട് റോട്ടർ n വേഗതയിൽ കറങ്ങുന്നു ഇനി അടുത്തത് ഈ വ്യുൽപ്പന്നമാണ് ഇപ്പോൾഇടത് വശം അവശേഷിക്കുന്നു കാരണം അത് ആവൃത്തിയാണ് ഇപ്പോൾആവൃത്തി F2 sf ആണ് ഇപ്പോൾ ഇത് റോട്ടർ സർക്യൂട്ട് ആണ് ഇതാണ് E1 ഈ ഭാഗം SE2 SE1 ആയിരിക്കും ഇവിടെ അനുപാതം a 1 a n 1 n2 ആണ് ഈ സാഹചര്യത്തിൽ ഇത് 11 ആണ് ഇതെല്ലാം രൂപാന്തരപ്പെടുന്നു ഈ പരിവർത്തനം പിന്നീട് കാണിക്കുന്നു ട്രാൻസ്ഫോർമറിന്റെ രീതി ഏതാണ്ട് സമാനമാണ് അത് അവിടെ ആയിരിക്കും r2 a² r2 s X 2 എന്നത് s a²X 2 ആയിരിക്കും ഇവിടെ നിലവിലുള്ളത് ഈ വശം 22 ആണ് ഇപ്പോൾ ഇവിടെ ഈ 2 ' നോക്കുകയാണെങ്കിൽ 2 ' 2 എന്നത് 1 a ന് തുല്യമാണ് അതിനാൽ 2 I 2 2 a ആയിരിക്കും അതിനാൽ ഈ വശം അതിനെ രൂപാന്തരപ്പെടുത്തുകയാണെങ്കിൽ അത് 11 ആയി മാറും അത് I2 I2 a ആയി മാറും ഇതേ E2 ആയിരിക്കും കാരണം Sa2 SE1 ഇത് 1 1 ആണ് ഇപ്പോൾ അടുത്തത് ഈ വശമാണ് ഇതിനെ S കൊണ്ട് ഹരിക്കുക ഇത് എല്ലാ ഘടകങ്ങളെയും s കൊണ്ട് ഹരിക്കുന്നു അത് ഇപ്പോൾ 1 1 ആണ് എല്ലാറ്റിനെയും s കൊണ്ട് ഹരിച്ചാൽ ഇത് E1 ആകും ഇത് X 2 ആയി മാറും ഇത് S കൊണ്ട് ഹരിച്ചാൽ അത് X2 ആയിരിക്കും ഇതുപയോഗിച്ച് ഹരിച്ചാൽ അത് r2 ' S ആയിരിക്കും അതിനാൽ ഇത് X 2 ' r2 ' S ആയിരിക്കും ഇത് E 1 E 1 ആണ് അതിനാൽ ഇവിടെ ഇത് വീണ്ടും 1 1 കാണിക്കില്ല ഇവിടെ അത് ഇപ്പോൾ തുല്യമായ സർക്യൂട്ട് ആണ് ഇപ്പോൾ അത് F2 sf ആണ് ഇപ്പോൾ ആവൃത്തി f ആണ് കാരണം ഇത് E1 ആണ് അതിനാൽ ഈ രണ്ടു കാര്യങ്ങളും ഈ വശത്തേക്ക് കൊണ്ടുവരും അതിനാൽ ഇത് X 2 ഉം r2 ഉം ആണ് സർക്യൂട്ട് അടച്ചിരിക്കുന്നു അതിനാൽ ഇത് ഇൻഡക്ഷൻ മെഷീൻ തുല്യമായ സർക്യൂട്ട് ആണ് എന്നാൽ r c ഇവിടെ കാണിച്ചിട്ടില്ല അതിനാൽ ഇത് ഇൻഡക്ഷൻ മെഷീന്റെ തുല്യമായ സർക്യൂട്ട് ആണ് അതിനാൽ ട്രാൻസ്ഫോർമർ പോലെയുള്ള കോർ ലോസ് ഘടകം ഉണ്ടെങ്കിൽ ഈ ശാഖയ്ക്ക് കോർ ഒന്നുതന്നെയാണ് ഇതാണ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ തത്തുല്യമായ സർക്യൂട്ടിന്റെ വികസനo ഇൻഡക്ഷൻ മോട്ടോറിന്റെ സർക്യൂട്ട് മാതൃക ഇപ്പോൾ ചിത്രം 7a ൽ കാണിച്ചിരിക്കുന്നതുപോലെ ഓരോ ഘട്ടത്തിലും വരയ്ക്കാം ഇപ്പോൾ ഇവയെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ വ്യുൽപ്പന്നം നോക്കൂ 2 റോട്ടർ സർക്യൂട്ട് ഡയഗ്രാമിൽ നിന്ന് SE2 r2 j SX 2 എഴുതാം ചിത്രം 7 a ൽ അങ്ങനെ ആ സന്ദർഭത്തിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും a കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ SaE2 a r2 j s a X 2 നമുക്കറിയാം 2 a 2 ' അതിനാൽ ഈ 2 ഡിനോമിനേറ്ററിനെ വീണ്ടും a കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഇത് 2 a 2 ' അതിനാൽ SE2 a² r2 j sa² X 2 അതിനാൽ ഈ ഭാഗം ആ E2 എന്ന് എഴുതാം E2 എന്നത് E 1 എന്ന് എഴുതാം കാരണം E 1 E2 a അതിനാൽ ഇത് SE1 നെ a² r2 j s a² X 2 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ Z2 ' a²r2 j s a² X 2 നിർവചിക്കുക അതായത് r2 ' j S X 2 ' r2 ' ഇത്രയും X 2 ' അതിനാൽ ഞങ്ങൾ ഇവിടെ ഈ സർക്യൂട്ടിലേക്ക് പോകുന്നതെന്തും ഞങ്ങൾ ഇവിടെ SE2 ഉണ്ടാക്കിയതെന്തും ആത്യന്തികമായി അത് SE1 ആണ് അതുപോലെ ഇവിടെ ഞങ്ങൾ അത് SE1 ൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അതിനാൽ ഇത് ഇൻഡക്ഷൻ മെഷീന്റെ തുല്യമായ ഘടകം ആണ് ട്രാൻസ്ഫോർമർ സംഖ്യാശാസ്ത്രം പോലെ തന്നെ ഈ കാര്യം ഉപയോഗിച്ച് നമുക്ക് SE1 എഴുതാം അതിനാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും s കൊണ്ട് ഹരിക്കുക അതിനാൽ ഇത് 2 E 1 r2 j X 2 ആണ് എല്ലാം സ്റ്റേറ്റർ വശത്തേക്ക് രൂപാന്തരപ്പെടുന്നു അതിനാൽ ഈ ലളിതമായ തന്ത്രങ്ങൾ റോട്ടർ സർക്യൂട്ടിനെ സ്റ്റേറ്റർ ആവൃത്തിയിലേക്ക് പരാമർശിക്കുന്നു കാരണം ഇവിടെ ഈ സർക്യൂട്ട് ആണ് അത് ഇപ്പോൾ ആവൃത്തി f ആണ് ഇവിടെ ഇത് sf ആണ് എന്നാൽ ഇത് s കൊണ്ട് ഹരിച്ചാൽ അതിനാൽ ആവൃത്തി f ആണ് ഇതൊരു ലളിതമായ തന്ത്രമാണ് അതിനാൽ ഇത് I2 ആണ് അതിനാൽ ഈ ലളിതമായ സൂത്രം സ്റ്റേറ്റർ ആവൃത്തിയിലേക്ക് റോട്ടർ സർക്യൂട്ടിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ r2 ' r2' s ൽ നിന്ന് വേർതിരിക്കുകയാണെങ്കിൽ റോട്ടർ ചെമ്പ് നഷ്ടത്തെ ഒരു പ്രത്യേക സ്ഥാപനമായി പ്രതിനിധീകരിക്കാൻ സർക്യൂട്ട് മാതൃക ചിത്രം 8 aൽ കാണിച്ചിരിക്കുന്നു ഇതിൽ വേരിയബിൾ പ്രതിരോധം മെക്കാനിക്കൽ ഔട്ട്പുട്ടിനെ വൈദ്യുത രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു എന്നാണ് അതായത് ഈ പ്രതിരോധം r2 ' s ആണ് ടി അതുകൊണ്ട് r2' കുറച്ചതിനുശേഷം r2' ചേർക്കുക അതായത് ഇത് r2 ' r2 ' എന്ന് എഴുതാം അത് 1 s 1 ആയിരിക്കും അതിനാൽ അതിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുക കാരണം എല്ലാ കാര്യങ്ങളെയും ചെറിയ അക്ഷരത്തിൽ പ്രതിനിധീകരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി r2 ' ഒന്നുമല്ല ചെറിയ r2' ആണ് X2 എന്നത് x 2 R 1 r 1 X 1 r 1 X m ഒരു x m ആണ് ഇത് r ആണ് ഇതാണ് I0 വൈദ്യുതി അതുപോലെ R എന്നാൽ ri അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ റോട്ടോർ വൈദ്യുത ധാര വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇതു യഥാർഥത്തിൽ റോട്ടോർ റിയാക്റ്റൻസാണ് ഇതു പ്രതിരോധവുമാണ് ബാക്കിയുള്ളത് യാന്ത്രികശക്തിയാണ് കാരണം r2 s s അസ്ഥിരമാണ് അതിനാൽ അതു സ്ലിപ്പാണ് അതിനാൽ അതു മാത്രം എടുക്കുക ബാക്കി വരുന്ന r2 ' 1 s മൊത്തത്തിലുള്ള യാന്ത്രികോർജ ഉൽപന്നമാണ് ഇതിൽനിന്നു മനസ്സിലാകുന്നത് ഈ വൈദ്യുത ധാര r2 ' s ആണെന്നാണ് ഈ r2 ' s വഴി രണ്ടു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒന്ന് r2 ' പൊതുവായി എടുക്കുക അപ്പോൾ 1 s 1 r2 കുറയ്ക്കുന്നതിലൂടെ വൈദ്യുതധാരയിൽ കാണുന്നതു വരുന്നു അതിനാൽ ഈ ഭാഗം റോട്ടോർ റെസിസ്റ്റൻസ് വേർതിരിക്കപ്പെടുന്നു അതിനാലാണ് ഈ വൈദ്യുതധാര യഥാർഥ യാന്ത്രിക ഉൽപന്നമാകുന്നത് ചിത്രം എട്ടിനു പല അർഥങ്ങളുണ്ട് ഇതു രണ്ടും കൂട്ടുകയാണെങ്കിൽ കിട്ടുന്നത് r2 ' s ആയിരിക്കും അതിനാൽ ഇതിന്റെ വൈദ്യുതധാരാ മാതൃക ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയും Ri ഘടകത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ r2 ' X 2 ' r2 ഇതുപോലെയായിരിക്കും ഇവിടെ ചിത്രത്തിൽ ഒരു അച്ചടിത്തെറ്റുണ്ട് അത് ശരിക്കും r2 ' ആണ് ഈ പ്രധാന നഷ്ടം കുറയ്ക്കണം എന്നുവെച്ചാൽ ഇവിടെ എല്ലാ പ്രധാന നഷ്ടവും അതായത് ആ ശാഖ തന്നെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ r2 ' 1 s ഭാഗത്തിനായി പ്രധാന നഷ്ടം കുറയ്ക്കേണ്ടിയിരിക്കുന്നു ഇതു മറ്റൊരു കാര്യമാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ഇരുമ്പു നഷ്ട പ്രതിരോധം Riൽ ബന്ധപ്പെട്ട വയർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ നഷ്ടം ആകെയുള്ള യാന്ത്രിക ഉൽപാദനത്തിൽനിന്ന് അതായത് ആഗിരണം ചെയ്യപ്പെട്ട ഊർജം ഹരിക്കണം r2 1 s - 1 ൽനിന്ന് കുറയ്ക്കണം ഒരു ഇൻഡക്ഷൻ യന്ത്രത്തിലെ സ്ലിപ്പിന്റെ സാധാരണ വ്യാപ്തിക്ക് സ്വീകാര്യമായ നിശ്ചിത നിഗമനത്തിന് ഇത് ഉതകുന്നു നഷ്ടമാകുന്ന ഊർജം r2 1 s 1 ചിത്രം 8ബിയിൽ പറയുന്ന പ്രധാന നഷ്ടം ഉൾപ്പെടുന്നു എന്നും അതു കുറച്ചാലാണ് മൊത്തം യാന്ത്രികോർജം ലഭിക്കുകയെന്നും ഓർക്കണം അതിനാൽ കണക്കുകൂട്ടിയാൽ വ്യക്തമാവുക ആകെയുള്ള യാന്ത്രികോർജ ഉൽപാദനം എത്രയെന്നറിയാൻ നേരത്തേ കിട്ടിയതിൽനിന്ന് വിന്റേജും ഘർഷണവും കുറയ്ക്കണമെന്നാണ് വിന്റേജിനെയും ഘർഷണത്തെയും ചേർത്തു നമ്മൾ ചാക്രിക നഷ്ടമെന്നു വിളിക്കുന്നു മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ടും നഷ്ടങ്ങളും സംഭവിക്കുമെന്നതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്നിരിക്കെ ഒരു ഇൻഡക്ഷൻ മോട്ടോറിൽ ചാക്രിക നഷ്ടം സ്ഥിരമായി ഒന്നാണ് ശാശ്വതമായ പ്രയോഗിത വോൾട്ടേജും മോട്ടോർ വേഗവും ലോഡ് ഇല്ലാത്തപ്പോഴും മുഴുവൻ ലോഡിലും ചെറിയ തോതിൽ മാത്രമേ മാറുന്നുള്ളൂ ഒരു കാര്യമേ ഓർക്കാനുള്ളൂ കണക്കു കൂട്ടുമ്പോൾ ആകെ യാന്ത്രികോർജം ഷാഫ്റ്റ് പവറിനു തുല്യമാണ് മറ്റൊരു കാര്യം ഏകദേശ വൈദ്യുതിധാരാ മാതൃകയാണ് ഏകദേശ വൈദ്യുതിധാരാ മാതൃക ഇതുപോലെ കാണിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ ഈ ശാഖയിലെ എല്ലാം കാര്യങ്ങളും സമയം 4039 നോക്കുക ഒരുമിച്ചു ചേർക്കുക എന്നാൽ ഇത്തരത്തിൽ അവലോകനം ചെയ്യുന്നതു തെറ്റായ ഫലമാണ് തരിക കാരണം ഒരു ട്രാൻസ്ഫോമർ എന്നതുപോലെ ഇതു യഥാർഥത്തിൽ വളരെ ചെറുതാണ് എന്നാൽ ഇൻഡക്ഷൻ മോട്ടോറിൽ അത് I0യുടെ 30 മുതൽ 50 വരെ ശതമാനമാകാം ഈ നിഗമനത്തിൽ ഉദ്ദേശിക്കുന്നതെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തുടർന്ന് പ്രാഥമിക ചോർച്ചാ റിയാക്റ്റൻസും ഒരു ട്രാൻസ്ഫോമറിലേതിനെ അപേക്ഷിച്ച് ഇൻഡക്ഷൻ മോട്ടോറിൽ കൂടുതലാണ് അതിനാൽ പ്രാഥമിക റിയാക്റ്റൻസിലുള്ള വോൾട്ടേജ് നഷ്ടം അവഗണിക്കുന്നതു ന്യായീകരിക്കാനാവില്ല അതിനാൽ ഇൻഡക്ഷൻ യന്ത്രത്തിന്റെ കാര്യത്തിൽ കണക്കു കൂട്ടുമ്പോൾ കൃത്യതയാർന്ന മാതൃക പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ലഭിച്ച ഫലമോ ഈ മാതൃകയോ താരതമ്യേന കൃത്യത കുറഞ്ഞതാണ് ഇപ്പറഞ്ഞ I0 വൈദ്യുതി ഉപയോഗിക്കുന്ന കാന്തികമാക്കുന്ന ഷണ്ട് ശാഖ 90 ഡിഗ്രി പിന്നിലാണ് ലോഡ് കുറഞ്ഞിരിക്കുമ്പോൾ യന്ത്രം പ്രവർത്തിക്കുന്നതിന്റെ കരുത്ത് കുറവാണ് ഇതാണ് ഇൻഡക്ഷൻ മോട്ടോറിൽ അന്തർലീനമായ പ്രശ്നം കാന്തിക വൈദ്യുതിധാരയിൽ വായു വിടവുള്ളതിനാലാണ് ഇത് സ്റ്റേറ്ററിന്റെ വശമായ പ്രധാനത്തിൽ നിന്ന് ഉത്തേജക വൈദ്യുതധാര വരയ്ക്കണം